അതിനാൽ ഈ സർക്യൂട്ടിൽ നോക്കുക ആദ്യം ആ മെഷ് ലൂപ്പ് കാര്യം കാണണം അതിനാൽ ചോദ്യം നോക്കുകയാണെങ്കിൽ a b e f a അതിനാൽ ഒന്ന് r b c d e b ഇത് a b e f a മറ്റൊന്ന് b c d e b അതിനാൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു b c d e b ഇത് യഥാർത്ഥത്തിൽ വ്യക്തിഗതമാണ് ഇത് യഥാർത്ഥത്തിൽ മെഷ് ആണ് ഇത് മെഷ് ആണ് കാരണം r ന് കീഴിൽ ലൂപ്പ് ഇല്ല അതിനുള്ളിൽ എന്താണുള്ളത് എന്നാൽ ലൂപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിർമ്മിക്കുന്നുവെന്ന് കരുതുക അത് ഒരു നീല നിറമാണ് ആ വർണ്ണത്തിന് വ്യത്യസ്ത വർണ്ണമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ കാര്യങ്ങൾ മികച്ചതായിരിക്കും പക്ഷേ ഇതുപോലെയാണെങ്കിൽ r a b c d e f a a b c എന്നിട്ട് d എന്നിട്ട് e f a ഇതുപോലെയാണ് അതിനാൽ ഇത് ഒരു ലൂപ്പ് a b c d e f a ഇത് ഒരു ലൂപ്പാണ് കാരണം ഈ ലൂപ്പിനുള്ളിൽ 2 ബോൾഡ് ലൂപ്പുകൾ ഉണ്ട് അതിനാൽ ഇത് ഒരു ലൂപ്പാണ് പക്ഷേ മെഷ് എന്നാൽ അവിടെ ഉണ്ടാകും എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇത് ഇത് ഒരു മെഷ് ആണ് അതിനുള്ളിൽ ഒരു ലൂപ്പും ഇല്ല പക്ഷേ a b c ഒരു a b c d e f a എടുത്താൽ ഇതുപോലെ എടുത്താൽ ഈ മുഴുവൻ കാര്യങ്ങളും ഇഷ്ടപ്പെടും അതിനാൽ അതിനുള്ളിൽ ഇവിടെ മറ്റൊരു ലൂപ്പ് ഉണ്ടാകും അതിനെ ലൂപ്പ് എന്ന് വിളിക്കുന്നു ഇത് ചെറിയ വ്യത്യാസമുള്ള ലൂപ്പും മെഷും ആണ് പക്ഷേ ചിലപ്പോൾ അയഞ്ഞ രീതിയിൽ ലൂപ്പ് അല്ലെങ്കിൽ മെഷ് എന്നാൽ ഇതാണ് ലൂപ്പും മെഷും തമ്മിലുള്ള വ്യത്യാസം അതിനർത്ഥം ഇതുപോലെയാണെങ്കിൽ ഇതുപോലുള്ള പൂർണ്ണമായത് എടുക്കുകയാണെങ്കിൽ അത് ഒരു ലൂപ്പാണ് ഇത് ഒരു ലൂപ്പായി എടുക്കുന്നുവെന്ന് കരുതുക എന്നാൽ അതിനുള്ളിൽ ഇത് ഒരു മെഷ് ആണ് കാരണം ലൂപ്പ് ഉണ്ട് അതിനുള്ളിൽ ഒരു ലൂപ്പും ഇല്ല അതിനാൽ ഈ മുഴുവൻ കാര്യവും ഒരു ലൂപ്പാണ് എന്നാൽ അതിനുള്ളിൽ 2 ലൂപ്പുകളും ഉണ്ട് അതിനാൽ ഇത് ഒരു ലൂപ്പാണ് എന്നാൽ ഈ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരു ലൂപ്പും ഇല്ല ഇവിടെയും അതിനുള്ളിൽ ഒരു ലൂപ്പും ഇല്ല ആ സമയത്ത് ഇത് ഒരു മെഷ് ആണ് അതിനാൽ ഇത് മെഷ് 1 ആണ് ഇത് മെഷ് 2 ആണ് കൂടാതെ ഈ സിംഗിൾ ലൂപ്പും ഉണ്ട് മെഷും ലൂപ്പും തമ്മിലുള്ള ചെറിയ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു ഇവിടെ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ നിലവിലെ ക്യാപ്പിറ്റൽ I1 എടുത്തതാണ് ഇത് ക്യാപ്പിറ്റൽ I2 എടുത്തതും ഇത് ക്യാപ്പിറ്റൽ I3 എടുത്തതും സൈക്ലിക് കറന്റ് I1 I2 എടുത്തതുമാണ് ഇത് I1 ഉം ഇത് I2 ഉം ആണ് സൈക്ലിക് കറന്റ് എടുത്തു ഈ സാഹചര്യത്തിൽ ആദ്യം ചെയ്യാൻ കഴിയുന്നത് ആദ്യം ഈ I1 കറന്റ് കാണുക ആദ്യം ഈ കറന്റ് എങ്ങനെയെന്ന് കാണുക r മനസ്സിലാക്കുന്നതിനുള്ള ഈ I1 കറന്റ് ഇത് ഇതുപോലെ പോകുന്നു അതിനാൽ ഇത് r I1 അതിനർത്ഥം ഇത് ക്യാപ്പിറ്റൽ I1 ആണ് അതിനർത്ഥം എന്റെ ക്യാപ്പിറ്റൽ I1 ചെറിയ I1 ഇവിടെ ഇപ്പോൾ ഈ I2 എടുത്താൽ ഇത് ഇതുപോലെ പോകുന്നു അതിനാൽ ഈ I1 എടുത്താൽ അത് താഴേക്ക് വരുന്നു ഈ I2 എടുത്താൽ ഇത് ഈ ചെറിയ I1 ഉം ചെറിയ I2 ഉം മുകളിലേക്ക് പോകുന്നു അപ്പോൾ ക്യാപ്പിറ്റൽ I2 എന്തായിരിക്കും ഇതാണ് ക്യാപ്പിറ്റൽ I2 അതിനാൽ ദിശ താഴേക്ക് ഈ I1 ദിശ താഴേക്ക് ഇത് മുകളിലേക്ക് പോകുന്നു അതിനാൽ ഇത് I1 I2 ആണ് ഇത് ക്യാപ്പിറ്റൽ I2 I1 I2 I3 ഈ കറന്റ് യഥാർത്ഥത്തിൽ I2 ആണ് കാരണം ഇത് ഇതുപോലെ നീങ്ങുന്നു ഇത് യഥാർത്ഥത്തിൽ I2 ആണ് അതായത് ചെറിയ I2 ക്യാപ്പിറ്റൽ I3 ഈ രീതിയിൽ ഈ സൈക്ലിക് കറന്റ് ഇതുവഴി കാര്യങ്ങൾ മനസിലാക്കാൻ എളുപ്പമാകും ഇപ്പോൾ I1 ചെറിയ I1 മൂലധനം I1 ചെറിയ I2 ക്യാപ്പിറ്റൽ I3 താഴേക്കുള്ള ദിശ I2 I1 കാരണം I1 താഴേക്ക് നീങ്ങുന്നു അതിനാൽ ഈ സൈക്ലിക് കറന്റ് എടുത്തതിനാൽ ഫലമായി I1 I2 ആണ് അതിനർത്ഥം ഇപ്പോൾ r പ്രയോഗിക്കുക ഇത് r മെഷ് 1 ആണ് ഇപ്പോൾ r മെഷ് 1 ൽ r കെവിഎൽ പ്രയോഗിക്കുക കാരണം മെഷ് വിശകലനം കെവിഎല്ലും നോഡൽ അനാലിസിസ് പ്രയോഗിക്കേണ്ടതുണ്ട് കെസിഎൽ പ്രയോഗിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ പക്ഷേ ഇത് ഒരു സൂപ്പർ നോഡാണെങ്കിൽ തീർച്ചയായും കെസിഎല്ലും കെവിഎല്ലും രണ്ടും ആവശ്യമാണെന്ന് കണ്ടിട്ടുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ മെഷ് 1 മെഷ് 2 എന്നിവയിൽ ഞങ്ങൾ കെസിഎൽ കെവിഎൽ എന്ന് വിളിക്കുന്നത് എഴുതുകയാണെങ്കിൽ ഈ 2 ഇക്വഷൻ ലഭിക്കും ഇപ്പോൾ എഴുതിയിട്ടില്ല കാരണം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഇതെല്ലാം അവിടെയുണ്ട് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതെല്ലാം അതിലൂടെ കടന്നുപോകാൻ കഴിയും എന്നാൽ ചില സ്ഥലങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയും അതിനാൽ ദയവായി ഇത് ഒരു അധ്യായത്തിൽ കാണുക അത്തരമൊരു പുസ്തകം പൂർത്തിയായിട്ടില്ല കെവിഎല്ലിന് r മെഷ് 1 ഉം മെഷ് 2 ഉം എഴുതുകയാണെങ്കിൽ ലഭിക്കും v 1 R 1 I1 R 2 I1 I2 0 അതിനർത്ഥം ലളിതമാക്കുകയാണെങ്കിൽ R 1 R 2 I1 R 2 v 1 അതിനർത്ഥം ഇവിടെ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ മെഷിലെ കെവിഎൽ അതിനാൽ ഇത് I1 R 1 ആയിരിക്കും തുടർന്ന് r I2 r r I2 ലേക്ക് R 2 v 0 I2 I1 I2 എന്ന് പറഞ്ഞു അതിനാൽ ഇവയെല്ലാം നിർമ്മിക്കുമ്പോൾ ഇവയ്ക്ക് ഒടുവിൽ ലഭിക്കും അത് R 1 R 2 I1 R വരുന്നു 2 I2 v 1 അതുപോലെ മെഷ് 2 ലേക്ക് കെവിഎൽ പ്രയോഗിക്കുക r പ്രയോഗിക്കുക മെഷ് 2 ലേക്ക് കെവിഎലിനെ വിളിക്കുന്നത് അതിനാൽ ഇത് ഈ r I3 R3 v 2 r R 2 പോലെ I2 I1 ലേക്ക് ആയിരിക്കും അതിനാൽ ഇവിടെ I3 R3 R 2 I2 v 2 R 2 I2 I1 ലേക്ക് 0 നേരെ മുന്നോട്ട് എഴുതാൻ കഴിയും കാരണം ഒരു മെഷ് 2 I2 മുകളിലേക്ക് നീങ്ങുമ്പോൾ മുകളിലേക്ക് അതിനാൽ അവർ ക്ലോക്ക് തിരിച്ചും I1 താഴോട്ടും നീങ്ങുന്നു അതിനാൽ I2 I1 അതിനാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ R 1 R 2 R3 എല്ലാം അറിയാമെങ്കിൽ ഇത് r v y v 1 v 2 ആണ് I1 I2 സൈക്ലിക് കറന്റ് പരിഹരിക്കുക ചെറിയ I1 I2 അറിയാമെങ്കിൽ I1 ക്യാപിറ്റൽ I1 ചെറിയ I1 ക്യാപിറ്റൽ I3 ചെറിയ I2 ഡയഗ്രാമിൽ കണ്ടു തുടർന്ന് I2 r ദിശയിലുള്ള കോൾ താഴേക്ക് അതിനാൽ ഇത് I1 I2 ആയിരിക്കും ഇത് r ആണ് ഈ ഡയഗ്രം അനുസരിച്ച് താഴേക്കുള്ള ദിശയിൽ I1 ക്യാപിറ്റൽ I1 ചെറിയ I1 ക്യാപിറ്റൽ I2 I1 I2 ഈ ഡയഗ്രം അനുസരിച്ച് I3 I2 എന്നിവ നൽകി ഈ r ഈ I2 താഴേക്കുള്ള ദിശയാണ് അതിനാൽ ഇപ്പോൾ ഇതിനുള്ളിൽ ഇതാണ് മെഷ് അനാലിസിസ് അതിനാൽ ചിത്രം r 20 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ മെഷ് അനാലിസിസ് ഉപയോഗിച്ച് R1 I I2 I3 നിർണ്ണയിക്കുന്നു r മെഷ് അനാലിസിസ് പ്രയോഗിക്കണം അതിനർത്ഥം കെവിഎൽ ഇത് 1 മെഷ് ആണ് ഇത് മറ്റൊരു മെഷ് ആണ് കെവിഎൽ പ്രയോഗിക്കുക അതനുസരിച്ച് 1 വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് മാത്രം കണ്ടെത്തുക അതിനാൽ ഈ I1 ഇതുപോലെ പോകുന്നുവെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനാൽ ചെറിയ I1 ക്യാപിറ്റൽ I1 ഈ I1 കണ്ടെത്തണം തുടർന്ന് ചെറിയ I2 ഇതും ഇതുപോലെയാണ് അതിനാൽ ഈ ചെറിയ I2 ഉം ക്യാപിറ്റൽ I2 ആണ് ഈ ക്യാപിറ്റൽ I2 ആണെങ്കിൽ ഇത് r I2 ഒരേ ദിശയിലാണെങ്കിൽ ഇത് r I1 ആണ് അത് ചെറിയ I1 അതേ ദിശയാണ് ഒപ്പം I3 ഈ ക്യാപിറ്റൽ I3 അത് താഴെയാണ് അതിനാൽ ഈ I1 താഴേക്കും ഈ ചെറിയ I2 മുകളിലേക്കും ഇത് ഇതാണ് അതിനാൽ I1 I2 എന്നിവ പരിഹരിച്ചുകഴിഞ്ഞാൽ I1 ക്യാപിറ്റൽ ചെറിയ I1 ക്യാപിറ്റൽ I1 ചെറിയ I2 ക്യാപിറ്റൽ I2 എന്നിവ കണ്ടെത്തുക ഇത് I3 ആണ് r KVL എളുപ്പത്തിൽ പ്രയോഗിക്കുക ഉദാഹരണത്തിന് ഒരു I1 ഇക്വഷൻ ബാധകമാണെങ്കിൽ ഞാൻ ഇതുപോലെ നീങ്ങുന്നുവെന്ന് കരുതുക അതിനാൽ 10 വോൾട്ട് ഇത് ആദ്യം നേരിടുന്നു അതിനാൽ ഇവിടെ r പ്രയോഗിച്ചാൽ r KVL ഇത് ഇതുപോലെ നീങ്ങുന്നു ഇത് R 10 വോൾട്ട് നേരിടുന്നതിനാൽ ഇത് 10 ആയിരിക്കും തുടർന്ന് ഇത് ഘടികാരദിശയിൽ നീങ്ങുന്നതിനാൽ ഇത് 10 നെ I1 I2 ലേക്ക് I1 I2 ലേക്ക് വിളിക്കുന്നു ഈ ദിശയിലുള്ള ഈ ശാഖയിൽ നിലവിലുള്ള കറന്റ് ഈ വഴിയിലൂടെ പോയാൽ അത് I1 I2 ഇതുപോലെ നീങ്ങുന്നു തുടർന്ന് കണ്ടുമുട്ടുന്നു ഈ വോൾട്ടേജ് സോഴ്സന്റെ ആദ്യ ടെർമിനൽ അതിനാൽ 15 തുടർന്ന് r r 5 by 1 0 അതിനാൽ ഞങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ലളിതവൽക്കരിക്കുകയാണെങ്കിൽ ആ ബന്ധം I1 I2 സമാനമായി ഇവിടെയും ലഭിക്കും അങ്ങനെ ചെയ്താൽ ഇവിടെ എഴുതി 15 പറഞ്ഞതെന്തും 15 5 I1 10 10 I1 I2 0 ഇത് എഴുതുക 10 വോൾട്ട് ആണെന്ന് പറഞ്ഞു 10 ഇതുപോലെ നീങ്ങുന്നു തുടർന്ന് 10 I1 I2 ലേക്ക് അതിനാൽ 10 ലേക്ക് I1 I2 എന്നിട്ട് ഇതുപോലെ നീങ്ങുന്നു അതിനാൽ 15 15 ഇവിടെയുണ്ട് തുടർന്ന് 5 I1 5 I1 0 3 I1 2 I2 1 ലളിതമാക്കുക ഇത് ഇക്വഷൻ 1 ആണ് അതുപോലെ മെഷ് 2 ന് ക്ലോക്ക് ദിശയിൽ നീങ്ങുകയാണെങ്കിൽ മെഷ് 2 പ്രയോഗിക്കുകയാണെങ്കിൽ അതിനാൽ 10 മുതൽ I2 വരെ അതായത് R 10 മുതൽ I2 വരെയാണ് 10 ഇവിടെ നിന്ന് I2 ഇവിടെയുണ്ട് ഈ വഴി നീങ്ങുന്നു ഇപ്പോൾ ക്ലോക്ക് തിരിച്ച് ഈ രീതിയിൽ ഈ രീതിയിൽ ക്ലോക്ക് തിരിച്ച് പോകുന്നു അതിനാൽ ഇത് I2 I1 ആയി 10 ആകും ഇത് I2 I1 ലേക്ക് 10 ആയിരിക്കും അതിനാൽ 10 മുതൽ I2 വരെ I1 തുടർന്ന് കണ്ടുമുട്ടൽ ടെർമിനൽ ഈ 10 വോൾട്ട് സോഴ്സിൽ ആദ്യം അതിനാൽ 10 ഇവിടെ 10 0 അതായത് I1 2 I2 1 ഇത് ഇക്വഷൻ 1 1 2 എന്നീ ഇക്വഷനുകൾ പരിഹരിക്കുക പരിഹരിച്ചാൽ ചെറിയ I1 ഒരു ആമ്പിയർ ചെറിയ I2 1 ആമ്പിയർ എന്നിവയും ലഭിക്കും അങ്ങനെ ക്യാപ്പിറ്റൽ I1 I1 തുടക്കത്തിൽ പറഞ്ഞാൽ അത് 1 ആമ്പിയർ I2 ചെറിയ I2 1 ആമ്പിയർ ദിശയിലുള്ള ക്യാപ്പിറ്റൽ I3 താഴേക്ക് I1 I2 അത് 0 അതിനർത്ഥം ആ രണ്ടാമത്തെ ശാഖയിൽ നിലവിലെ ഒഴുക്കില്ല ചിത്രം 21 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ മെഷ് അനാലിസിസ് നിർണ്ണയിച്ച് മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ ചോദ്യം ഇതാണ് ഇത് ഒരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് ഈ കറന്റ് ഈ പ്രവാഹത്തിലൂടെ ഒഴുകുന്നു ഇത് ഒരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് ഒപ്പം r ചെയ്യേണ്ടതുമാണ് ഒരേ നടപടിക്രമം പിന്തുടരുന്നത് R 1 മെഷ് 2 മെഷ് 3 മെഷുകൾ എന്നിവയുണ്ട് അതിനാൽ അതനുസരിച്ച് r ചെയ്യണം അതായത് ഈ ശാഖയിൽ നിർമ്മിക്കുമ്പോൾ അതിനാൽ ഈ ബ്രാഞ്ച് എവിടെയാണ് നിർമ്മിക്കുന്നത് ഇത് എപ്പോൾ ചലിക്കുമ്പോൾ ഇതുപോലെയാണ് നീങ്ങുന്നത് ഈ കറന്റിനെ നമ്മൾ I1 എന്ന് വിളിക്കുന്നു ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നു പക്ഷേ r മനസ്സിലാക്കലിനായി ഇത് r നെ ഇതിനെ വലിയ രീതിയിൽ വിളിക്കുന്നു ഈ കറന്റ് യഥാർത്ഥത്തിൽ ഈ കറന്റ് ഇതുപോലെ പോകുന്നു ഇത് ഇതുപോലെ പോകുന്നു ഈ സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുകയാണെങ്കിൽ 5 Ω മുതൽ 5 Ω വരെ റെസിസ്റ്റൻസ് അതിലുള്ള കറന്റ് താഴേക്ക് യഥാർത്ഥത്തിൽ ഈ I1 ഇത് യഥാർത്ഥത്തിൽ I1 I2 ആണ് കാരണം I1 താഴേക്ക് വരുന്നു ഇത് മുകളിലേക്ക് പോകുന്നു ഈ I2 മുകളിലേക്ക് പോകുന്നു അതിനാൽ ഇത് ക്യാപിറ്റൽ I1 I2 ആണ് അതുപോലെ ഇവിടെ ഈ 6 Ω റെസിസ്റ്റൻസിൽ 6 Ω റെസിസ്റ്റൻസിൽ ലുടനീളം ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണെന്ന് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ r ആ കെവിഎലിനെ വിളിക്കും കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് ഈ 5 ലേക്ക് 5 ആയിരിക്കും അതിനാൽ 5 യഥാർത്ഥത്തിൽ I1 I2 ലേക്ക് പിന്നെ ഇവിടെ 6 പ്രയോഗിക്കണം I1 മുകളിലേക്ക് ഇത് I1 I3 ഇത് ആദ്യം നെഗറ്റീവ് ടെർമിനൽ കണ്ടുമുട്ടുന്നു 12 0 ഈ സമവാക്യം എളുപ്പത്തിൽ എഴുതാൻ കഴിയും മെഷ് 1 നായുള്ള ആദ്യ ഇക്വഷൻ ആണിത് അതുപോലെ മെഷ് 2 ന് ബാധകമെങ്കിൽ ഇതുപോലുള്ള നീക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് I2 ലേക്ക് 12 ആയിരിക്കും കാരണം 12 I2 ലേക്ക് ഇത് മെഷ് 2 ആണ് ഈ വഴി നീങ്ങുന്നു ഇത് r I2 ആണ് ഇത് r I3 ആണ് കാരണം ഇവിടെ ക്ലോക്ക് തിരിച്ച് എടുക്കുന്നതിനാൽ ക്ലോക്ക് തിരിച്ചും ഈ വഴി നീങ്ങുന്നു അതിനാൽ 2 ലേക്ക് I2 I3 r 5 മുതൽ I2 വരെ I1 0 ഈ വഴിക്ക് ഈ സമവാക്യമെല്ലാം എഴുതാൻ കഴിയും അതിനാൽ മെഷ് 2 ആ മൂന്നാമത്തെ സമവാക്യത്തിലേക്ക് പിന്നീട് വരും ആദ്യത്തെ സമവാക്യത്തിലേക്ക് വന്നാൽ മെഷ് 2 ന്റെ രണ്ടാമത്തെ സമവാക്യവും എഴുതി ലളിതമാക്കിയാൽ അത് 11 I1 5 I2 6 I3 12 മെഷ് 2 5 I1 19 I2 എന്നിവയ്ക്ക് സമാനമാണ് 2 I3 0 ഇതാണ് സമവാക്യം 2 ഇപ്പോൾ ഈ മൂന്നാമത്തെ മെഷ് 3 ഇതിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 2 മുതൽ I3 വരെ ആയിരിക്കും r I2 എന്റെ r ൽ നിന്ന് പറയുന്നത് ഞാൻ മുറുകെ പിടിക്കുക ശ്രദ്ധിക്കൂ അത് മെഷ് 3 നോക്കും ഇത് r മെഷ് 3 ആണ് ഇത് I3 I2 ലേക്ക് 2 ആയിരിക്കും ക്ലോക്ക് തിരിച്ച് നീങ്ങുന്നതിനാൽ ഇതിനകം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതിനാൽ I3 ഉം ഈ ദിശയിലും ഇത് I3 I2 ലേക്ക് 2 ആയിരിക്കുമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ പദം ആദ്യം 2 I3 I2 ലേക്ക് പറയുന്നു അടുത്തത് r ഈ ഡിപെൻഡന്റ് സോഴ്സ് 2 2 എന്നതിനർത്ഥം r നേരത്തെ പറഞ്ഞത് r I1 I2 കാരണം ഇത് നേരത്തെ പറഞ്ഞതും ഇത് 2 i ഉം ആണ് അതായത് 2 I1 ഡിപെൻഡന്റ് സോഴ്സ് 2 I1 I2 ആ R 2 r I1 I2 പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഇത് 6 ലേക്ക് I3 I1 6 ക്ലോക്ക് ദിശയിലേക്ക് നീങ്ങുന്നു അതിനാൽ മുകളിലേക്ക് നീങ്ങുമ്പോൾ നിലവിലുള്ളത് 6 ആണ് I3 I1 ലേക്ക് 6 ലേക്ക് I3 I1 ഇത് I ലേക്ക് r 6 ആണ് ഇത് ലളിതമാക്കുകയാണെങ്കിൽ അത് I1 I2 2 ആയിരിക്കും I3 0 ഇതാണ് ഇക്വഷൻ 3 ഇക്വഷൻ 1 ഇക്വഷൻ 1 2 ഇക്വഷൻ 3 എന്നിവ മാട്രിക്സ് രൂപത്തിലാക്കി ക്ലാമറിന്റെ നിയമം ഉപയോഗിച്ച് പരിഹരിച്ചാൽ പരിഹരിക്കേണ്ടതുണ്ട് I1 2 25 ആമ്പിയർ I2 0 75 ആമ്പിയർ ലഭിക്കും ഒപ്പം I3 1 5 ആമ്പിയർ അതാണ് ക്യാപിറ്റൽ I1 I2 5 ആമ്പിയർ വരുന്നു മെഷ് അനാലിസിസിനായി കറന്റ് സോഴ്സ്സ് r ആണ് ഈ പ്രശ്നങ്ങളും വിശദീകരണങ്ങളും കണ്ടത് വോൾട്ടേജ് സോഴ്സുകൾക്കൊപ്പം മാത്രമാണ് കറന്റ് സോഴ്സ് വിളിക്കുന്നത് ഇപ്പോൾ കറന്റ് സോഴ്സുമായി മെഷ് അനാലിസിസ് വിശകലനം ചെയ്യും ഈ വിഭാഗത്തിൽ ആശ്രിതമോ സ്വതന്ത്രമോ ആയ കറന്റ് സോഴ്സുകൾ അടങ്ങിയിരിക്കുന്ന സർക്യൂട്ടിലേക്ക് മെഷ് അനാലിസിസ് പ്രയോഗിക്കും സർക്യൂട്ടിൽ കറന്റ് സോഴ്സുകളുടെ സാന്നിധ്യം ഇത് യഥാർത്ഥത്തിൽ ഇക്വഷനുകളുടെ എണ്ണം കുറയ്ക്കുന്നു അതിനാൽ കറന്റ് സോഴ്സ് ഒരു മെഷിൽ മാത്രം നിലനിൽക്കുമ്പോൾ ഇനിപ്പറയുന്ന 2 കേസുകൾ പരിഗണിക്കേണ്ടതുണ്ട് അതാണ് കണക്ക് മെഷ് 2 ൽ കറന്റ് സോഴ്സ് 2 മെഷുകളുള്ള ഒരു ലളിതമായ സർക്യൂട്ട് കാണിക്കും ഈ സാഹചര്യത്തിൽ ഇത് r ആണെന്ന് പറയുക 2 മെഷ് ഉണ്ട് 1 ഒരു കറന്റ് സോഴ്സ് നിലവിലുണ്ട് ഇത് 1 മെഷ് ഇത് മറ്റൊരു മെഷ് 1 കറന്റ് സോഴ്സ് ഇതിൽ നിലവിലുണ്ട് I2 ന്റെ മൂല്യം എന്താണെന്ന് കണ്ടെത്തണം ഇത് ക്ലോക്ക് ദിശയിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നാൽ ഈ 10 ആമ്പിയർ ഇത് മുകളിലേക്ക് r ആണ് ഈ 10 ആമ്പിയർ മുകളിലേക്ക് അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന I2 10 ആമ്പിയർ I2 10 ആമ്പിയർ ഇവിടെ 2 അല്ല ഇക്വഷനുകളുടെ എണ്ണം ഇക്വഷന്റെ എണ്ണം 1 ആയിരിക്കും കാരണം മറ്റൊരു മെഷിൽ കറന്റ് സോഴ്സ് ഉണ്ട് അതിനാൽ ഇത് ഇക്വഷന്റെ എണ്ണം കുറയ്ക്കുന്നു നേരിട്ട് I2 10 ആമ്പിയർ എഴുതാം ഇപ്പോൾ മെഷ് 1 ലെ r കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് എഴുതുന്നുവെന്ന് പരിശോധിച്ചാൽ അത് r ആയിരിക്കും അതിനാൽ r എന്ന് വിളിക്കുന്ന മെഷ് 1 ൽ r KVL പ്രയോഗിച്ചാൽ അപ്പോൾ അത് 8 മുതൽ I1 8 വരെ I1 ആകുകയും അതിന്റെ ഫലമായി ഈ ദിശയിലേക്ക് പ്രവഹിക്കുന്ന കറന്റ് I1 ആണ് ഇത് I2 പോകുന്നു അതിനാൽ ഈ ദിശയിൽ ഇത് I1 I2 ആണ് 12 ലേക്ക് I1 I2 tnty 0 എന്നിവയിലേക്ക് എന്നാൽ വിശദീകരിച്ച I2 10 ആമ്പിയർ അതിനാൽ I2 10 ആമ്പിയർ ഇടുകയാണെങ്കിൽ ഇത് I1 12 ആയിരിക്കും അത് I1 I2 10 ആമ്പിയർ അങ്ങനെ അതിനർത്ഥം ഇത് 10 ആയിരിക്കും 20 0 ഇവിടെ നിന്ന് കണ്ടെത്താനാകും എന്താണ് I1 കാരണം ഇത് 12 മാത്രമാണ് ഇത് I1 ആണ് അതിൽ നിന്ന് I1 എന്താണെന്ന് കണ്ടെത്താൻ കഴിയും ഈ സാഹചര്യത്തിൽ r I1 5 ആമ്പിയർ ഇതാണ് ഉത്തരം ഇപ്പോൾ ഒരു കറന്റ് സോഴ്സ്സ് 2 മെഷുകൾ ഉണ്ടെങ്കിൽ 2 മെഷുകളെക്കാൾ കറന്റ് സോഴ്സ്സ് നിലവിലുണ്ടെന്ന് കരുതുക ഈ സർക്യൂട്ട് നോക്കൂ നമുക്ക് പലതരം ഉദാഹരണങ്ങൾ നോക്കാം ലഭിക്കാത്തതും ഒന്നും അറിയാതിരിക്കുന്നതും എടുത്തിട്ടുണ്ട് ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകരുത് എസി സർക്യൂട്ടും സമാനമായ ഒരു കാര്യം ഉണ്ടാകും പക്ഷേ കോംപ്ലക്സ് നമ്പർ ഉൾപ്പെടുന്നതിനാൽ അത് പരിഹരിക്കാൻ സമയമെടുക്കും പക്ഷേ ആശയം അതേപടി നിലനിൽക്കുമെന്ന് കാണുമ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കുക ഇതിനിടയിൽ 2 മെഷുകൾ ഉണ്ടെങ്കിൽ ഒരു കറന്റ് സോഴ്സ് ഉണ്ട് അതോടൊപ്പം ഒരു 4 Ω റെസിസ്റ്റൻസും ഈ കറന്റ് സോഴ്സുമായി സീരിസിലുണ്ട് എന്നതാണ് ചോദ്യം നമുക്ക് എന്തുചെയ്യാൻ കഴിയും എന്നതാണ് അതിനാൽ ഈ എലെമെന്റ്സ് ഒഴിവാക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുക ഈ എലെമെന്റ്സ് ഒഴിവാക്കുക എന്നതിനർത്ഥം കറന്റ് സോഴ്സ് സീരിസിൽ കണക്റ്റുചെയ്തിരിക്കുന്ന മറ്റ് എലെമെന്റ്സ് ഒഴിവാക്കി ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുക എന്നാണ് അതിനാൽ ഇത് ഒഴിവാക്കി ഈ എലെമെന്റ് ഒഴിവാക്കുക സൂപ്പർ നോഡ് പഠിച്ചതുപോലുള്ള ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കും ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും കറന്റ് സോഴ്സ് മറ്റ് എലെമെന്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ഇത് ഇവിടെ ഒരു സൂപ്പർ മെഷ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നു പക്ഷേ r ആണ് ഈ കറന്റിനെ I1 എന്ന് വിളിക്കുന്നത് ഈ കറന്റ് I2 ആണ് എന്നാൽ ഇത് പരിഗണിക്കരുത് നിലവിലെ 12 Ω 28 Ω ഇത് അങ്ങനെയല്ല ഒഴുകുന്നത് അതിനാൽ ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കെവിഎല്ലിനെ അൽപം 12 ലേക്ക് I1 20 ലേക്ക് I2 40 ലേക്ക് വിളിക്കുന്നത് r പ്രയോഗിക്കുക 0 12 I1 20 I2 40 0 നോക്കുക കാരണം ഈ സൂപ്പർ മെഷ് സൃഷ്ടിക്കുകയും മറ്റൊരു വിധത്തിൽ ഒഴിവാക്കുകയും ചെയ്യുന്നു മറ്റൊരു തരത്തിൽ അത് മറ്റൊരു വിധത്തിൽ ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഈ ലൂപ്പിൽ കെവിഎൽ പ്രയോഗിക്കുന്നു ഈ ലൂപ്പിൽ കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് അടിസ്ഥാനപരമായി 12 I1 ഇത് ഒരു 12 I1 പിന്നെ ഇവിടെ 12 I2 ക്ഷമിക്കണം 20 28 I2 40 എന്നിവ കാരണം നെഗറ്റീവ് പദം 0 നേരിടുന്നു ഇത് ഒരു സൂപ്പർ നോഡുകൾ സൃഷ്ടിക്കുന്നത് ഇത് ഒഴിവാക്കുക ഈ രീതിയിൽ വീണ്ടും എഴുതുന്നു ഇത് r I1 ആണ് ഇത് സൂപ്പർ മെഷ് ആണ് ഈ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതേ ഇക്വഷൻ എങ്ങനെ എഴുതാം അതിനാൽ 3 I1 7 I2 10 ലളിതമാക്കുകയാണെങ്കിൽ ഇത് r ആണ് ചിത്രം 3 ലെ നോഡ് o ലേക്ക് കെസിഎൽ പ്രയോഗിക്കുക ഇപ്പോൾ രണ്ടാമത്തെ കാര്യം നോഡ് 0 കെസിഎൽ പ്രയോഗിക്കുക അതിനർത്ഥം ഇത് r നോഡ് ആണ് ഇത് o ആണ് അതിനാൽ ഇവിടെ ഈ 6 ആമ്പിയർ കറന്റ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം ഇത് മുകളിലേക്കുള്ള ദിശയാണ് അതിനാൽ ഇത് 6 ആമ്പിയർ ആണ് ഇത് നോഡ് വിടുകയാണ് കൂടാതെ ഈ I2 യഥാർത്ഥത്തിൽ നോഡിലേക്ക് പ്രവേശിക്കുകയും ഈ I1 വിടുകയും ചെയ്യുന്നു കാരണം നിലവിലെ I1 ഈ നിലവിലെ I2 പോലെ പോകുന്നു അടിസ്ഥാനപരമായി ഈ I2 ഈ നോഡിൽ പ്രവേശിക്കുന്നു അതിനാൽ I2 r 6 r I1 ഈ നോഡിൽ KCL പ്രയോഗിക്കുക അതുകൊണ്ടാണ് ഇവിടെ I1 6 തുല്യമോ I1 I2 6 ഉം എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ സമവാക്യം 1 2 പരിഹരിക്കുക പരിഹരിച്ചാൽ I1 3 2 ആമ്പിയറും I2 2 8 ആമ്പിയറും ലഭിക്കും അതിനാൽ ഒരു സൂപ്പർ മെഷിന് ഇനിപ്പറയുന്ന പ്രോപ്പർട്ടികൾ ഒന്ന് ഒരു സൂപ്പർ മെഷിന് സ്വന്തമായി കറന്റ് ഇല്ല ഇത് r ആണ് ഒരു സൂപ്പർ മെഷിന് സ്വന്തമായി കറന്റ് ഇല്ലാത്ത ആദ്യ കാര്യമാണിത് രണ്ടാമത്തേത് സൂപ്പർ മെഷിലെ കറന്റ് സോഴ്സ് മെഷ് കറന്റിനായി പരിഹരിക്കുന്നതിന് ആവശ്യമായ സ്ഥിരമായ ഇക്വഷൻ നൽകുന്നു ഇത് നിരന്തരമായ ഇക്വഷനാണ് ഇത് യഥാർത്ഥത്തിൽ r നിരന്തരമായ ഇക്വഷൻ ആയതിനാൽ KCL നോഡ് o യിൽ പ്രയോഗിക്കുക അതിനാലാണ് ഇത് ഒരു സ്ഥിരമായ ഇക്വഷൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയില്ല സൂപ്പർ മെഷ് ഒഴിവാക്കുമ്പോഴെല്ലാം ഒരു ആർ കെസിഎൽ അപേക്ഷിക്കേണ്ടതുണ്ടെന്ന് ചിന്തിക്കേണ്ടതുണ്ട് മറ്റ് ഇക്വഷൻ നേടുക അപ്പോൾ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ കാരണം ആ ലൂപ്പ് അല്ലെങ്കിൽ സൂപ്പർ മെഷ് ആശയം ഉപയോഗിച്ച് ഒരു ഇക്വഷൻ ലഭിച്ചു സൂപ്പർ മെഷിൽ മറ്റൊരു കാര്യം കെസിഎൽ പ്രയോഗിക്കേണ്ടതുണ്ട് അത് പ്രയോഗിക്കുകയും ഇത് സ്ഥിരമായ ഇക്വഷനാണ് ഇതും മൂന്നാമത്തേത് സൂപ്പർ മെഷും കെവിഎല്ലിന്റെയും കെസിഎല്ലിന്റെയും പ്രയോഗം ആവശ്യമാണ് കാരണം r നോഡൽ അനാലിസിസ് പോലെ സൂപ്പർ കണ്ടു നോഡ് കെവിഎല്ലും കെസിഎല്ലും ഇവിടെ കെവിഎൽ ആവശ്യമാണ് അതേ സമയം ഇവിടെ സ്ഥിരമായ ഇക്വഷൻ കെസിഎൽ ആണ് അത് നിർബന്ധമാണ് മറ്റൊരു ഉദാഹരണം എടുക്കുക ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ മെഷ് വിശകലനം ഉപയോഗിച്ച് I1 i4 എന്നിവ നിർണ്ണയിക്കുന്നു ഈ സാഹചര്യത്തിൽ ആദ്യം കാണാൻ കഴിയുന്നത് ആദ്യം പ്രശ്നം നോക്കുക എന്നതാണ് ആദ്യം പ്രശ്നം നോക്കുക ഇത് 1 മെഷ് ഇത് മറ്റൊരു മെഷ് ഇത് മറ്റൊരു മെഷ് 4 മെഷുകൾ ഉണ്ട് ഈ 2 മെഷുകൾ 1 കാവെർ ആർ എന്താണ് 1 ആർ എന്ന് വിളിക്കുന്നത് കറന്റ് സോഴ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ മുമ്പ് കാണിച്ചതുപോലെ 2 മെഷുകൾ അവിടെയുണ്ട് അതിനിടയിൽ കറന്റ് സോഴ്സുണ്ട് അതിനാൽ ഇത് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നു അതുപോലെ അപ്പോഴേക്കും ഈ മെഷ് മറ്റൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സുണ്ട് ഇതാണ് ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഇത് മറ്റൊരു സൂപ്പർ മെഷും സൃഷ്ടിക്കുന്നു അതിനാൽ ഈ സൂപ്പർ മെഷും ഈ സൂപ്പർ മെഷും അവർ തമ്മിൽ വിഭജിക്കുന്നു ഒടുവിൽ അവർ ഈ സൂപ്പർ മെഷ് സൃഷ്ടിച്ചു ആത്യന്തികമായി ഇത് അവിടെയുണ്ട് അവ തമ്മിൽ വിഭജിക്കപ്പെടുന്ന ഒരു പൊതു ഡിപെൻഡന്റ് കറന്റുണ്ട് ഇത് ഒടുവിൽ ഇത് ഒരു വലിയ സൂപ്പർ മെഷായി മാറുന്നു ആത്യന്തികമായി ഇത് വീണ്ടും ആവർത്തിക്കണം ഇത് കറന്റ് സോഴ്സ്ആണ് ഈ മെഷ് ഈ മെഷ് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നു ഇത് മറ്റൊരു മെഷ് ആണ് കറന്റ് സോഴ്സ് ആശ്രയിച്ചിരിക്കുന്നു അത് മറ്റൊരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നത് സ്വതന്ത്രമാണ് അതിനാൽ ഈ 2 സൂപ്പർ മെഷ് r പരസ്പരം വിഭജിക്കുകയും ഒടുവിൽ ഡാഷ് ലൈൻ ഇത് ഒരു r സൃഷ്ടിക്കുകയും വലിയ സൂപ്പർ മെഷ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രയോഗിക്കുകയും ഈ സർക്യൂട്ട് പരിഹരിക്കുകയും വേണം ഡാഷ് ലൈൻ യഥാർത്ഥത്തിൽ വലിയ സൂപ്പർ മെഷാണ് ഈ വലിയ സൂപ്പർ മെഷ് കെവിഎൽ പ്രയോഗിക്കുക ഇത് 4 I1 ഇത് 4 I1 r ഇത് r 8 I3 ആണ് ഇത് പരിശോധിച്ചാൽ ഇത് R 12 I2 ആണ് r എന്നത് 0 4 I1 ഒരു കാര്യം 12 I2 8 I3 4 I1 മറ്റൊന്ന് നഷ്ടമായി അതാണ് ഇത് 16 ഇവിടെയുണ്ട് 16 I3 i4 കാരണം ഇത് ഇതുപോലെ നീങ്ങുന്നു കാരണം ഈ 16 I3 i4 ക്ലോക്ക് തിരിച്ച് ചലിക്കുന്നതിനാൽ സൂപ്പർ മെഷിൽ നീങ്ങുന്നു അതിനാൽ 16 I3 i4 ഇവിടെ വരുന്നു 0 ലളിതവൽക്കരണത്തിനുശേഷം ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സിനായി I1 3 I2 6 I3 4 i4 0 നോഡ് a യിലേക്ക് കെസിഎൽ പ്രയോഗിക്കുക ഇവിടെ നോഡിൽ KCL പ്രയോഗിക്കുക ഈ I2 ഈ I2 r I1 5 എന്ന് കരുതുന്നുവെങ്കിൽ ഈ കറന്റ് പ്രവേശിക്കുകയും I1 5 ആമ്പിയർ ഈ 5 ആമ്പിയർ കറന്റ് സോഴ്സ് അതിനാൽ ഇത് I1 I2 5 ആണ് ഇത് നോഡ് a യിൽ കെസിഎൽ പ്രയോഗിക്കുന്നു നോഡിൽ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഉറവിടത്തെ ആശ്രയിച്ചുള്ള ഒരു I2 I1 5 നേടുക നോഡ് b യിലേക്ക് കെസിഎൽ പ്രയോഗിക്കുക ഡിപെൻഡന്റ് കറന്റ് സോഴ്സ്ന് മറ്റൊരു നോഡ് ഇവിടെയുണ്ട് ഡിപെൻഡന്റ് കറന്റ് സോഴ്സിനായി നോഡ് B യിൽ കെസിഎൽ പ്രയോഗിക്കുക ഈ സാഹചര്യത്തിൽ ഈ നിലവിലെ r ഇത് ഒരു ഡിപെൻഡന്റ് കറന്റ് ആയതിനാൽ എന്ത് സംഭവിക്കും ഇത് യഥാർത്ഥത്തിൽ 3 I ആണ് ഇത് ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ്ആണ് അതിനാൽ നേരത്തെ അപേക്ഷിച്ചാൽ r KCL നേരത്തെ ഇവിടെ പ്രയോഗിക്കുക ഇപ്പോൾ ഈ കാര്യത്തിൽ കെസിഎൽ പ്രയോഗിക്കുക തുടർന്ന് ഈ കറൻറ് യഥാർത്ഥത്തിൽ ഈ I3 ലേക്ക് പ്രവേശിക്കുന്നു കൂടാതെ ഈ 3 കറന്റും ഇവിടെ വരുന്നു ഈ 2 3 r എന്താണ് I2 എന്ന് നൽകുന്നത് അതിനാൽ I3 3 ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ആശ്രിത r ആണ് അതിനെ വിളിക്കുന്ന ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് മറ്റൊരു കാര്യം ഈ I3 യഥാർത്ഥത്തിൽ ഇതുപോലെ നീങ്ങുന്നു എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ വിളിക്കുന്നതിനെ r എന്നാൽ എന്തായാലും ഇത് പിന്നീട് പ്രയോഗിക്കുന്നത് അതിലേക്ക് വരും അതിനാൽ r I3 3 I2 പ്രയോഗിക്കുന്നു നോഡ് B യിലെ കെസിഎല്ലിലെ ആ ഇക്വഷനിലേക് മടങ്ങുക ഇവിടെയാണ് I2 I3 3 I ഇപ്പോൾ r i4 I എന്താണെന്ന് കാണേണ്ടതുണ്ട് അടുത്തത് ഇവിടെ വന്നാൽ ഇത് ദിശയാണ് ഈ ദിശയിൽ പിടിച്ചിരിക്കുക ഇത് r i4 ആണ് എന്നാൽ ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് പോലെ പോകുന്നു i4 അല്ലെങ്കിൽ ക്യാപ്പിറ്റൽ i4 ഇത് ഒരു I പിന്നെ I2 I3 3 i4 കാരണം ഇപ്പോൾ ഇത് നൽകിയിട്ടുണ്ട് i4 ഇത് ഇക്വഷൻ 3 ഇപ്പോൾ കെവിഎൽ മെഷിൽ പ്രയോഗിക്കുക 4 ഈ മെഷിൽ കെവിഎൽ മെഷ് 4 ൽ പ്രയോഗിക്കുകയാണെങ്കിൽ അതായത് ഈ മെഷിൽ കെവിഎൽ പ്രയോഗിച്ചാൽ അത് i4 I3 ലേക്ക് 4 i4 20 16 ആയിരിക്കും അതിനാൽ നേരിട്ട് വീണ്ടും എഴുതുന്നില്ല അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ കാര്യം 4 i4 20 16 i4 I3 ലേക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് 5 i4 4 I3 ഇക്വഷൻ 4 4 ഇക്വഷനുകളും 4 അൺനോൺ ഉണ്ടായിരിക്കുക ഇത് പരിഹരിച്ചതിന് ശേഷം I1 7 5 ആമ്പിയർ I2 2 5 ആമ്പിയർ I3 3 93 ആമ്പിയർ i4 2 143 ആമ്പിയർ അതിനാൽ ഇത് 4 അൺനോൺ ആണ്